അപ്പോൾ എഞ്ചിനീയറിംങ്ങ് മാത്തമറ്റിക്സ് 2 എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് 20 ാമത്തെ പ്രഭാഷണം ആണ് ഈ പ്രഭാഷണം റെസിഡ്യൂ നെക്കുറിച്ചാണ് അതുപോലെ കോംപ്ലക്സ് അനാലിസിസ് എന്ന മൊഡ്യൂളിലെ അവസാനത്തെ പ്രഭാഷണം ആണ് ഇത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റെസിഡ്യുനെക്കുറിച്ചും അത് എങ്ങനെ വിലയിരുത്താം എന്നതിനെക്കുറിച്ചും ആണ് പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറം എന്നു പറയുന്നത് റെസിഡ്യൂ തിയറംആണ് നിരവധി കോംപ്ലക്സ് ഇന്റഗ്രലുകൾ കണ്ടുപിടിക്കുന്നതിനായി ഇത് പ്രയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് ഈ തിയറം ഉപയോഗിച്ചു ഇന്റഗ്രലുകൾ എങ്ങനെ വിലയിരുത്താം എന്നതിനും നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ കാണും അപ്പോൾ റെസിഡ്യൂവിലേക്ക് വരുകയാണെങ്കിൽf എന്നത് zz0 ൽ ഒഴികെ ബാക്കി എല്ലായിടത്തും അനലിറ്റിക്ക് ആയ ഒരു ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ അപ്പോൾ ഇവിടെ zz0 എന്നത് f ന്റെ ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ് മുൻപത്തെ രണ്ട് അധ്യായങ്ങളിലും നമ്മൾ സിംഗുലാർ പോയിന്റുകളെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് ഇനി നമുക്ക് ഈ ഫംഗ്ഷന്റെ zz0 ൽ ഉള്ള ലോറന്റ് സീരീസ് എഴുതാം അത് റെസിഡ്യൂനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ f ന്റെ zz0 ൽ ഉള്ള ലോറന്റ് സീരീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും പവറുകൾ ഉള്ള പദങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ bn എന്ന കോയെഫിഷ്യന്റ് ഇന്റഗ്രൽ ഉപയോഗിച്ച് നമുക്ക് വിലയിരുത്താവുന്നതാണ് ലോറന്റ് സീരീസ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു b1 എന്നത് 1z z0 ന്റെ കോയെഫിഷ്യന്റ് ആണ് എന്ന് ഈ b1 നെയാണ് നമ്മൾ റെസിഡ്യൂ എന്ന് വിളിക്കുന്നത് വിവിധതരം റെസിഡ്യൂകൾ ഏതൊക്കെയാണെന്നും അത് എങ്ങനെ വിലയിരുത്താം എന്നും റെസിഡ്യൂവിന്റെ പ്രയോഗങ്ങൾ എന്താണെന്നും നമുക്ക് വിശദമായി നോക്കാം z0 ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണെങ്കിൽ zz0 ലെ f ന്റെ ലോറന്റ് സീരീസ് എക്സ്പാൻഷനിൽ 1z z0 ന്റെ കേയെഫിഷ്യന്റ് ആയ b1ആണ് zz0 ൽ f ന്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് ഇവിടെ b1 എന്നത് 12πiCfzz z0 n1dzആണ് ഇവിടെ n ന്റെ മൂല്യം 1 ആണ് അതുകൊണ്ട് n10 ആണ് അതായത് ഈ ഇന്റഗ്രലിൽ എന്ന പദം ഇല്ല അതുകൊണ്ട് b112πiCfzdz ആണ് ഇതിൽനിന്ന് നമുക്ക് കിട്ടും Cfzdz2πib1എന്ന് ഇവിടെ C എന്നത് z0 നെ ചുറ്റിയുള്ള ഒരു കേർവ് ആണ് നമുക്ക് വിലയിരുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സങ്കീർണ്ണമായ ഇന്റഗ്രലുകളുടെ മൂല്യം Cfzdz2πib1എന്ന ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് b1 ഈ ഫോർമുല ഉപയോഗിക്കാതെ കണ്ടെത്താവുന്നതാണ് ലോറന്റ് സീരീസ് എഴുതുമ്പോൾ കോയെഫിഷ്യന്റുകൾ വിലയിരുത്തുന്നതിനായി Cfzdz2πib1 എന്ന ഫോർമുല നമ്മൾ ഉപയോഗിക്കുകയില്ല കാരണം ഈ ഇന്റഗ്രൽ വിലയിരുത്തുക എന്നത് വളരെ സങ്കീർണ്ണമാണ് അതുകൊണ്ട് നമ്മൾ മറ്റേതെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ച് ഫംഗ്ഷന്റെ ലോറന്റ് സീരിസ് എഴുതുന്നു ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ b1 ന്റെ മൂല്യം നമുക്ക് കിട്ടും അതുപോലെ b1ന്റെ മൂല്യം ലഭിച്ചുകഴിഞ്ഞാൽ ഈ ഇന്റഗ്രൽ നമുക്ക് വിലയിരുത്താവുന്നതാണ് അതായത് ഈ ഇന്റഗ്രൽ വിലയിരുത്തുന്നതിനായി നമ്മൾ ഫംഗ്ഷന്റെ ലോറന്റ് സീരിസ് എഴുതുന്നു ലോറന്റ് സീരിസ് എഴുതിയാൽ b1 ന്റെ മൂല്യം നമുക്ക് കിട്ടും b1 കിട്ടിയാൽ ഇന്റഗ്രൽ നമുക്ക് കണ്ടെത്താം പക്ഷേ റെസിഡ്യൂ b1കണ്ടെത്തുന്നതിനായി നമുക്ക് മറ്റു മാർഗ്ഗങ്ങളുമുണ്ട് f ന്റെ zz0എന്ന ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റിലെ റെസിഡ്യൂ എങ്ങനെ കണ്ടെത്താം എന്ന് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് റെസിഡ്യൂവിന്റെ മൂല്യം വിലയിരുത്തുക ആദ്യം നമ്മൾ ഇത് ചർച്ച ചെയ്യും അതിനുശേഷം നമ്മൾ മുമ്പ് കണ്ട ഫോർമുല ഉപയോഗിച്ച് പല ഇന്റഗ്രലുകളും എങ്ങനെ വിലയിരുത്താം എന്നും കാണും അപ്പോൾ zz0 എന്നത് ഒരു റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണ് എന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഫംഗ്ഷന്റെ ലോറന്റ് സീരീസിന്റെ പ്രിൻസിപ്പൽ ഭാഗത്ത് പദങ്ങൾ ഒന്നും ഇല്ല എന്ന് ലോറന്റ് സീരിസിനു പ്രിൻസിപ്പൽ ഭാഗം ഇല്ല എന്നു പറഞ്ഞാൽ അതിനർത്ഥം z z0ന്റെ നെഗറ്റീവ് പവറുകൾ ഇല്ല എന്നാണ് അങ്ങനെയെങ്കിൽ നമുക്കറിയാം b1എന്നത് 0 ആണ് എന്ന് ഇതിനർഥം റെസിഡ്യൂ 0 ആണ് എന്നാണ് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് റെസിഡ്യൂ 0 ആകുമ്പോൾ z0 നെ ചുറ്റിയുള്ള ഈ കേർവിലുള്ള ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കോച്ചി തിയറം പറയുന്നതുപോലെ 0 ആണ് ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് റിമൂവബിൾ സിംഗുലാർ പോയിന്റിൽ ഫംഗ്ഷന്റെ റെസിഡ്യൂ 0 ആണ് ഇനി രണ്ടാമത്തെ കേസ് എന്നു പറയുന്നത് zz0 എന്നത് ഒരു സിംപിൾ പോൾ ആണെങ്കിൽ എന്താണ് റെസിഡ്യൂ എന്നതാണ് ഈ കേസിൽ ലോറൻന്റ് സീരിസിന്റെ പ്രിൻസിപ്പൽ ഭാഗം എന്നു പറയുന്നത് b1z z0 എന്ന ഒരേയൊരു പദമാണ് ഇവിടെ b1 എന്താണ് എന്നതാണ് നമുക്ക് വേണ്ടത് ലിമിറ്റ് ഉപയോഗിച്ച് ഇത് വളരെ എളുപ്പത്തിൽ കാണാം ഇവിടെ നമുക്ക് z z0 കൊണ്ട് ഫംഗ്ഷനെ ഗുണിക്കാം n0anz z0n എന്ന പദം ഇവിടെ വിഷയമല്ല കാരണം ഇവിടെ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ പിന്നെ b1 മാത്രമാണ് അവശേഷിക്കുന്നത് ബാക്കിയെല്ലാം 0 ആകും അതുകൊണ്ട് b1കിട്ടുന്നതിനായി ഫംഗ്ഷനെ z z0 കൊണ്ട് ഗുണിച്ചശേഷം limit z→z0 കാണുക അങ്ങനെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ കാണാതെ തന്നെ നമുക്ക് b1 കണ്ടുപിടിക്കാം z0 ഒരു സിംപിൾ പോൾ ആണെങ്കിൽ f നെ z z0 കൊണ്ട് ഗുണിക്കുക അതിനു ശേഷം ലിമിറ്റ് കാണുക ഈ ലിമിറ്റ് എന്താണോ അതായിരിക്കും റെസിഡ്യൂ ഇനി നമുക്ക് ഓർഡർ m ഉള്ള ഒരു പോൾ ആണ് ഉള്ളതെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ലോറന്റ് സീരീസിൽ b1 b2 b3 തുടങ്ങി bm വരെയുള്ള കോയെഫിഷ്യന്റുകൾ ഉണ്ടായിരിക്കും എന്നാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് b1 എന്താണ് എന്നതാണ് അതിനായി നമുക്ക് ഫംഗ്ഷനെ z z0m കൊണ്ട് ഗുണിക്കാം അപ്പോൾ നമുക്ക് കിട്ടും n0anz z0mnb1z z0m 1b2z z0m 2bm എന്ന് ഇനി ഈ എക്സ്പ്രഷനെ നമ്മൾ m 1 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ m 1 b1എന്ന പദവും പിന്നെ mn പവറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന z z0 ന്റെ പവറുകൾ ആകുന്ന ചില പദങ്ങളുമേ ഉണ്ടാവുകയുള്ളു ബാക്കിയെല്ലാം 0 ആകും എന്നാൽ നമ്മൾ ലിമിറ്റ് എടുത്തു കഴിയുമ്പോൾ പിന്നെ ബാക്കിയുണ്ടാവുക b1മാത്രമാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ b1 കണ്ടുപിടിക്കാം എന്ന് അതായത് ഇവിടെ നമ്മൾ ഫംഗ്ഷനെ ആദ്യം z z0mകൊണ്ട് ഗുണിച്ച് ശേഷം m 1 തവണ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു അതിനുശേഷം ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് b1 ലഭിക്കുന്നു അങ്ങനെ m ഓർഡർ ഉള്ള ഒരു പോൾ ആണ് നമ്മുടെ സിംഗുലാർ പോയിന്റ് എങ്കിൽ 1m 1 z→z0dm 1dzm 1z z0mfz ആയിരിക്കും b1 ഇനി ഒരു എസൻഷ്യൽ സിംഗുലാർ പോയിന്റിലെ റെസിഡ്യൂ എന്നു പറയുന്നത് കണ്ടുപിടിക്കുന്നതിനായി നമ്മൾ ചെയ്യുന്നത് ഫംഗ്ഷ്യന്റെ ലോറന്റ് സീരിസിൽ നിന്നും 1z z0 ന്റെ കോയെഫിഷ്യന്റ് കണ്ടുപിടിക്കുക എന്നതാണ് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമായ റെസിഡ്യൂ തിയറത്തിലേക്ക് വരാം നമ്മൾ മുൻപ് കണ്ടു Cfzdz2πib1 എന്ന് അതായത് f എന്നത് ഒരു സിംപിൾ ക്ലോസ്ഡ് കേർവ് C യുടെ ഉള്ളിൽ zz0 എന്ന ഒരു പോയിന്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും അനലിറ്റിക്ക് ആയ ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഇന്റഗ്രലിന്റെ മൂല്യം 2πib1 ആണ് ഈ സിംപിൾ ക്ലോസ്ഡ് കേർവ് C യുടെ ഉള്ളിൽ ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് മാത്രമാണ് ഉള്ളത് എങ്കിലുള്ള കാര്യമാണ് ഇത് എന്നാൽ ഇത് നമുക്ക് സാമാന്യവൽക്കരിക്കാൻ കഴിയും f എന്നത് ഒരു സിംപിൾ ക്ലോസ്ഡ് കേർവ് C യുടെ ഉള്ളിൽ z1z2zr എന്ന ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റുകൾ ഒഴികെ ബാക്കി എല്ലായിടത്തും അനലിറ്റിക്ക് ആയ ഒരു ഫംഗ്ഷൻ ആണ് എന്ന് വിചാരിക്കുക അതായത് z0 എന്ന ഒരു സിംഗുലാരിറ്റിക്കു പകരം ഇപ്പോൾ C യുടെ ഉള്ളിൽ r സിംഗുലാരിറ്റികൾ ഉണ്ട് ഈ കേസിൽ ഇന്റഗ്രലിന്റെ മൂല്യം 2πi തവണ ഈ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റികളിലെ റെസിഡ്യൂകളുടെ ആകെത്തുക ആണ് അതായത് നമുക്ക് r സിംഗുലാരിറ്റികൾ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ r റെസിഡ്യൂവും കണ്ടുപിടിച്ചശേഷം അതിന്റെ ആകെ തുക 2πi കൊണ്ട് ഗുണിക്കണം ഈ ഫംഗ്ഷന്റെ എല്ലാ സിംഗിലാരിറ്റികളെയും അടക്കം ചെയ്യുന്ന ഒരു കേർവ് C യെ സംബന്ധിച്ച ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഇതായിരിക്കും അങ്ങനെ നമുക്ക് കിട്ടി Cfzdz2πik1nReszzkf എന്ന് അങ്ങനെ റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് വളര എളുപ്പത്തിൽ നമുക്ക് ഈ ഇന്റഗ്രൽ കാണുവാൻ സാധിച്ചു ഇനി ഈ റെസിഡ്യൂ തിയറം എങ്ങനെയാണ് വരുന്നത് എന്ന് ചുരിക്കിപ്പറയാം ഇപ്പോൾ നമുക്കുള്ളത് f എന്നൊരു ഫംഗ്ഷനും അതിന്റെ r സിംഗുലാരിറ്റികളും ആണ് അതുപോലെ എല്ലാ സിംഗുലാരിറ്റികളെയും അടക്കം ചെയ്യുന്ന ഒരു കേർവ് C യും പിന്നെ ഓരോ സിംഗുലാരിറ്റിയെയും അടക്കം ചെയ്യുന്ന കേർവ് Ci യും ഉണ്ട് അതുപോലെ ഇവയെല്ലാം ഐസൊലേറ്റഡ് സിംഗുലാരിറ്റികൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവ ഓരോന്നിനു ചുറ്റും മറ്റു സിംഗുലാരിറ്റികളെ ഒന്നും ഉൾക്കൊള്ളാത്ത രീതിയിൽ വൃത്തം വരയ്ക്കാവുന്നതാണ് അങ്ങനെ ഈ വൃത്തങ്ങൾ എല്ലാം ഈ സിംഗുലാരിറ്റികളെ അടക്കം ചെയ്യുന്നു അതുപോലെ ഓരോ വൃത്തത്തിനു ഉള്ളിലും ഒരു സിംഗുലാരിറ്റി മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് കോച്ചി തിയറം അനുസരിച്ച് C യിലുള്ളf ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഓരോ കേർവിലുമുള്ള ഇന്റഗ്രലുകളുടെ ആകെത്തുകയാണ് അങ്ങനെ CfzdzC1fzdzC2fzdzCrfzdz2πik1rReszzkf ആണ് അങ്ങനെ ഇത്തരം ഇന്റഗ്രലുകൾ കാണാൻ റെസിഡ്യൂ കണ്ടാൽ മതി എന്നുള്ളതു കൊണ്ടുതന്നെ ഈ തിയറം വളരെ ഉപകാരപ്രദമാണ് ഇവിടെ ആകെയുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് റെസിഡ്യൂ കാണുക എന്നതാണ് എന്നാൽ റെസിഡ്യൂ കണ്ടാൽ ഇന്റഗ്രൽ കാണുക എളുപ്പമാണ് ഉദാഹരണത്തിന് നമുക്ക് Cez 1zz 1z i2dz എന്താണ് എന്ന് വിലയിരുത്തണം എന്ന് വിചാരിക്കുക ഇവിടെ C എന്നത് z2 ആണ് ഇവിടുത്തെ സിംഗുലാർ പോയിന്റുകൾ എന്നു പറയുന്നത് z01i എന്നിവയാണ് അതുകൊണ്ട് ഈ ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റ്കൾ എല്ലാം ഈ വൃത്തത്തിനു ഉള്ളിൽ ഉണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് റെസിഡ്യൂ തിയറം പ്രയോഗിക്കാവുന്നതാണ് അതിനായി നമുക്ക് ഈ മൂന്നു പോയിന്റുകളിലെയും റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ടതുണ്ട് കാരണം ഈ സിംഗുലാർ പോയിന്റുകൾ എല്ലാം C യുടെ ഉള്ളിൽ ഉണ്ട് അതിനായി ആദ്യം നമ്മൾ ഈ സിംഗുലാർ പോയിന്റുകളെ തരംതിരിക്കുകയാണ് ആദ്യം നമുക്ക് z→0⁡ez 1zz 1z i2 എന്താണ് എന്ന് നോക്കാം ഇവിടെ e0 10 ആയതു കൊണ്ട് 00 രൂപം ആണ് നമുക്കുള്ളത് അതുകൊണ്ട് ഇവിടെ നമുക്ക് LHospital നിയമം ഉപയോഗിക്കാം ഇവിടെ ന്യൂമറേറ്റർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ez എന്ന് കിട്ടും അതുപോലെ ഡിനോമിനേറ്ററിനെ പ്രോഡക്ട് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടുംz 1z i2zz i22zz 1 എന്ന് ഇനി ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും 1 1 11 എന്ന് അങ്ങനെ ഇവിടുത്തെ ലിമിറ്റ് 1 ആണ് അതായത് z 0 യിലേക്ക് അടുക്കുമ്പോഴുള്ള ലിമിറ്റിന്റെ മൂല്യം 1 ആണ് അതിനർത്ഥം z0 എന്നത് ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണ് എന്നാണ് എന്നാൽ z 1 ലേക്ക് അടുക്കുമ്പോൾ ഉള്ള കേസ് ഇങ്ങനെയല്ല ഇനി നമുക്ക് z 1 പരിഗണിക്കാം

z1 എന്നത് ഒരു സിംപിൾ പോൾ ആണ് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഇനി zi എങ്ങനെയാണ് എന്ന് നോക്കാം 2 കൊണ്ട് ഫംഗ്ഷനെ ഗുണിച്ച ശേഷം ലിമിറ്റ് കാണുകയാണെങ്കിൽ നമുക്ക് കാണാം zi ഓർഡർ 2 ഉള്ള ഒരു പോൾ ആണ് എന്ന് അപ്പോൾ ഈ ഫംഗ്ഷന്റെ സിംഗുലാരിറ്റികളെ നമ്മൾ തരംതിരിച്ചു കഴിഞ്ഞിരിക്കുന്നു z0 എന്നത് ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണ് z1 ഒരു സിംപിൾ പോൾ ആണ് zi എന്നത് ഓർഡർ 2 ഉള്ള പോൾ ആണ് ഇനി ഇവ ഓരോന്നിലെയും റെസിഡ്യൂ എന്താണ് എന്ന് നമ്മൾ കാണണം ആദ്യത്തേ കേസിൽ റിമൂവബിൾ സിംഗുലാരിറ്റി ആയതു കൊണ്ട് റെസിഡ്യൂ 0 ആണ് കാരണം റിമൂവബിൾ സിംഗുലാരിറ്റിയുടെ കേസിൽ ലോറന്റ് സീരീസിൽ നെഗറ്റീവ് പവറുകൾ ഉള്ള ടേമുകൾ ഒന്നും ഉണ്ടായിരിക്കുകയില്ല ഇനി z1 ലെ റെസിഡ്യൂ എന്താണ് എന്ന് നോക്കാം നമ്മൾ മുൻപ് കണ്ടതുപോലെ z→1z 1fze 1i2 ആണ് z1 ലെ റെസിഡ്യൂ ഇനി zi എന്നത് ഓർഡർ 2 ഉള്ള പോൾ ആയതുകൊണ്ട് അതിലെ റെസിഡ്യൂ എന്നു പറയുന്നത് z→iddz z i2fzആണ് z i2 കൊണ്ട് ഗുണിച്ചു കഴിമ്പോൾ ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിൽ ഉള്ള z i2 എന്ന പദം റദാക്കപ്പെടും അതുകൊണ്ട് നമ്മൾ z→iddz ez 1zz 1 കണ്ടാൽ മതിയാകും കോഷ്യന്റ് റൂൾ പ്രയോഗിച്ചാൽ z→iddz ez 1zz 1z→izez z2z 12 എന്ന് നമുക്ക് കിട്ടും ഇവിടെ കോഷ്യന്റ് റൂൾ പ്രയോഗിച്ച ശേഷം zi എന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് കിട്ടും iei i 12 എന്ന് ഇതിനെ നമുക്ക് വീണ്ടും ലഘൂകരിച്ച് 12 3ei2i എന്നെഴുതാം അപ്പോൾ ഇതാണ് zi യിലെ റെസിഡ്യൂ അങ്ങനെ നമുക്ക് കിട്ടിയ മൂന്ന് റെസിഡ്യൂ ഇവയാണ് ഒന്ന് 0 രണ്ടാമത്തേത് e 1i2 പിന്നെ മൂന്നാമത്തേത് 12 3ei2i ഇനി ഇന്റഗ്രൽ മൂല്യം എന്ന പറയുന്നത് 2πi കൊണ്ട് ഈ റെസിഡ്യൂകളുടെ അകെത്തുകയെ ഗുണിക്കുന്നതാണ് അതായത് 2πi0e 1i212 3ei2i ഇതിനെ ഒന്നുകൂടി ലഘൂകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രലിന്റെ മൂല്യം ലഭിക്കും റെസിഡ്യൂകൾ ഇന്റഗ്രലുകളുടെ മൂല്യനിർണ്ണയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ കണ്ട ആപ്ലിക്കേഷനുകളിൽ നിന്നും വ്യക്തമാണ് കാരണം റെസിഡ്യൂ ഉപയോഗിക്കാതെ ഇവ വിലയിരുത്തുക എന്നത് കുറച്ച് സങ്കീർണ്ണമാണ് ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം നമുക്ക് ICzcosh πz z413z236dz എന്ന ഇന്റഗ്രൽ വിലയിരുത്താം വീണ്ടും ഇവിടെയും നമ്മൾ സിംഗുലാർ പോയിന്റുകൾ ഏതൊക്കെയാണെന്നും അത് ഏതു തരം ആണെന്നും നിർണ്ണയിക്കേണ്ടിയിരിക്കുന്നു ഇനിസിംഗുലാർ പോയിന്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്കുള്ളത് z2 ൽ ഉള്ള ഒരു ക്വാഡ്രാറ്റിക് സമവാക്യമാണ് അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് കാണാം z2 4 z2 9 എന്ന രണ്ട് സമവാക്യങ്ങളുടെ പൂജ്യങ്ങൾ ആയ z±2i യും z±3i ആണ് ഈ ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിന്റെയും പൂജ്യങ്ങൾ ഇവയാണ് അല്ലെങ്കിൽ z2i 2i3i 3i എന്നിവയാണ് ഈ ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റുകൾ ഈ നാല് സിംഗുലാർ പോയിന്റുകളിലെയും റെസിഡ്യൂ നമ്മൾ കാണണം ഇവിടെ നമുക്ക് കാണാം ഈ സിംഗുലാരിറ്റികൾ എല്ലാം zπ ക്ക് ഉള്ളിൽ വരുന്നുണ്ട് കാരണംπ3 ആണ് എന്നാൽ ഇവിടെ നമുക്ക് 3 വരെയേ പോകേണ്ടതുള്ളു അങ്ങനെ ഈ സിംഗുലാരിറ്റികൾ എല്ലാം ആരമുള്ള വൃത്തത്തിനു ഉള്ളിലാണ് ഉള്ളത് വീണ്ടും നമ്മുടെ ഫംഗ്ഷൻzcosh πz z2iz3i എന്ന് എഴുതാം അതുകൊണ്ട് മൂന്നു സിംഗുലാർ പോയിന്റുകളും അതായത് z2i യും z 2i യും z3i യും z 3i യും സിംപിൾ പോൾ ആണ് കാരണം fനെ കൊണ്ട് ഗുണിച്ച ശേഷം ലിമിറ്റ് കാണുകയാണെങ്കിൽ അത് നിലനിൽക്കും അതുപോലെ ബാക്കിയെല്ലാം അതുകൊണ്ട് ഇവയെല്ലാം സിംപിൾ പോൾ ആണ് ഇനി നമുക്ക് z2i യിലെ ലിമിറ്റ് കാണണം അതിനായി ആദ്യം നമ്മൾ ഫംഗ്ഷനെ z 2i കൊണ്ട് ഗുണിക്കുന്നു അതിനു ശേഷം z 2i യിലേക്ക് അടുക്കുമ്പോൾ ഉള്ള ലിമിറ്റ് കാണുന്നു നമുക്കറിയാം cosh 2πi e2πie 2πi2cos2π1ആണ് എന്ന് അപ്പോൾ f ന്റെ ലിമിറ്റ് 2icosh π2i 4i i5iഅല്ലെങ്കിൽ 110എന്ന് കിട്ടും അങ്ങനെ z2i യിലെ റെസിഡ്യൂ എന്നു പറയുന്നത് 110 ആണ് അതുപോലെ z 2i യിലെയും z3i യിലെയും z 3i യിലെയും റെസിഡ്യൂ 110 തന്നെയാണ് അതായത് എല്ലാ സിംപിൾ പോളിലെയും റെസിഡ്യൂവിന്റെ മൂല്യം 110 ആണ് അതുകൊണ്ട് ഇന്റഗ്രലിന്റെ മൂല്യം 2πi തവണ റെസിഡ്യൂകളുടെ ആകെത്തുക അഥവാ 2πi110110110110 ആണ് അതായത് ഇന്റഗ്രലിന്റെ മൂല്യം 4πi5 ആണ് Ed ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം z12 എന്ന വൃത്തവും fzz1z4 2z3എന്ന ഫംഗ്ഷനും പരിഗണിക്കുക ഇവിടെ വൃത്തത്തിന്റെ ആരം 12 ആണ് സിംഗുലാരിറ്റി കാണുന്നതിനായി ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ z3 എന്നെഴുതുക z2 വും അതുപോലെ z0 യും സിംഗുലാരിറ്റി ആണ് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം z2 എന്ന സിംഗുലാരിറ്റി z12 എന്ന വൃത്തത്തിനു പുറത്താണ് അതുകൊണ്ട് z2 വിലെ റെസിഡ്യൂ കാണേണ്ടതില്ല z0 യിലെ റെസിഡ്യൂ എന്താണ് എന്നതു മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി z0 യിലെ റെസിഡ്യൂ എന്താണ് എന്ന് നമുക്ക് നോക്കാം fzz1z4 2z3 എന്ന് ആയതു കൊണ്ട് z→0z3fzഎന്താണ് എന്ന് നമുക്ക് നോക്കാം ഇതിൽനിന്നും z0 എന്നത് ഓർഡർ 3 ഉള്ള പോൾ ആണ് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് z0 യിലെ f ന്റെ റെസിഡ്യൂ എന്താണ് എന്ന് നമ്മൾ കാണണം അത് 13 1 z→0d2dz2z3f⁡ ആണ് f നെ z3 കൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് കാണേണ്ട ലിമിറ്റ് 12z→0d2dz2z1z 2എന്നാകും അത് 38 ആണ് അങ്ങനെ z0 യിലെ റെസിഡ്യൂ 38 ആണ് അങ്ങനെ ഇന്റഗ്രലിന്റെ മൂല്യം 2πi റെസിഡ്യൂ ആയ 38 കൊണ്ട് ഗുണിക്കുന്നതാണ് അതായത് ഇന്റഗ്രലിന്റെ മൂല്യം 3πi4 ആണ് ഇവിടെ നമ്മൾ കണ്ട ഒരു കാര്യം ഇതാണ് f ന്റെ സിംഗുലാർ പോയിന്റുകളിൽ ഒരെണ്ണം കേർവിന്റെ പുറത്താണ് അതുകൊണ്ടു തന്നെ ആ പോയിന്റിലെ റെസിഡ്യൂ കാണേണ്ടതില്ല ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം Czeπzz4 16zezdz ഇവിടെ C എന്നത് x2y291 എന്ന ദീർഘവൃത്തമാണ് ഇനി ഇന്റഗ്രന്റിന്റെ ആദ്യ ഭാഗം നോക്കുകയാണെങ്കിൽ z416 ൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം z2 4 ഉം അല്ലെങ്കിൽ z24 ഉം ആണ് അതുകൊണ്ട് z±2i യും z±2 യും എന്നീ നാലു പോയിന്റികൾ ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റുകൾ ആണ് അതുപോലെ z→0 അടുക്കുമ്പോൾ ez→∞ അടുക്കുന്നു അതുകൊണ്ട് z0 എന്നതും ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റ് ആണ് കാരണം അവിടെയും ഫംഗ്ഷൻ നിർവചിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റുകൾ 0±2i±2 എന്നിവയാണ് അതുപോലെ ഇവിടെ ±2 എന്നീ രണ്ടു പോയിൻറ്കൾ ഡൊമെയ്നിനു പുറത്താണ് ഉള്ളത് അതുകൊണ്ട് ഈ രണ്ട് പോയിന്റുകളെയും നമ്മൾ പരിഗണിക്കേണ്ടതില്ല അങ്ങനെ റെസിഡ്യൂ വിലയിരുത്തേണ്ട മൂന്ന് പോയിന്റുകൾ നമുക്കുണ്ട് ഫംഗ്ഷന്റെ ആദ്യഭാഗത്ത് അതായത് zeπzz4 16 ന്റെ z2i ലെ റെസിഡ്യൂ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അത് Resz2izeπzz4 16zeπzz2iz2 4|z2i 116 ആണ് ഇതേപോലെ z 2i യിലെയും റെസിഡ്യൂ 116 ആണ് ഇനി ഫംഗ്ഷന്റെ രണ്ടാം ഭാഗത്തിന്റെ സിംഗുലാർ പോയിന്റ് ആയ z0 എന്നത് ഒരു എസൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആണ് zez ന്റെ എക്സ്പാൻഷനിലെ 1z ന്റെ കോയെഫിഷ്യന്റ് അഥവാ b1ആയ 22ആണ് z0 യിലെ ഫംഗ്ഷന്റെ റെസിഡ്യൂ ഇനി ഇന്റഗ്രലിന്റെ തുക എന്നു പറയുന്നത് 2πi ഗുണം റെസിഡ്യൂകളുടെ ആകെത്തുക ആണ് ഇത് 2 14i എന്നാണ് അപ്പോൾ ഇത് എസൻഷ്യൽ സിംഗുലാരിറ്റി ഉള്ള ഒരു ഫംഗ്ഷനു ഉദാഹരണമായിരുന്നു ഈ പ്രഭാഷണം തയ്യാറാക്കുന്നതിനായി ഉപയോഗിച്ച റഫറൻസുകൾ ഇവിയെല്ലാം ആണ് ഈ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് റെസിഡ്യൂ തിയറം ആയിരുന്നു അത് Cfdzz→z0z z0f എന്നാണ് ഇവിടെ നമ്മൾ C എന്ന അതിർത്തിക്കുള്ളിലുള്ള എല്ലാ സിംഗുലാർ പോയിന്റുകൾ zk യും പരിഗണിക്കണം പിന്നെ നമ്മൾ കണ്ടു ഒരു സിംപിൾ പോളിന്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് z→z0z z0f ആണ് അതുപോലെ ഓർഡർ m ആയിട്ടുള്ള പോൾ ആണെങ്കിൽ റെസിഡ്യൂ എന്നത് b11m 1 z→z0dm 1dzm 1z z0mfzആയിരിക്കും ഇനി എസൻഷ്യൽ സിംഗുലാരിറ്റി ആണ് എങ്കിൽ നമ്മൾ ലോറന്റ് സീരിസ് എഴുതിയ ശേഷം ആദ്യത്തെ നെഗറ്റീവ് പവറിന്റെ കോയെഫിഷ്യന്റ് എന്താണ് എന്ന് നോക്കണം അതായിരിക്കും റെസിഡ്യൂ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ പ്രഭാഷണം അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി